നമസ്കാരം റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് തുടങ്ങിയ വിവിധ സർക്യൂട്ട് ഘടകങ്ങളെക്കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചു അവയുടെ ഗുണവിശേഷതകൾ നമ്മൾ കണ്ടു കൂടാതെ ആ ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന സമവാക്യങ്ങളും നമ്മൾ കണ്ടു ഓംസ് നിയമത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ആ ചർച്ച തുടരുകയും ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ വിശകലനത്തിന് പ്രധാനപ്പെട്ട മറ്റ് അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ ഓംസ് നിയമം തന്നെ പര്യാപ്തമല്ല അതിനാൽ രണ്ട് നിയമങ്ങൾ അതായത് കിർചോഫിന്റെ രണ്ട് നിയമങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവ വിവിധതരം ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിന് മതിയായതും ശക്തവുമായ ഉപകരണങ്ങളാണ് എന്താണ് ഈ രണ്ട് നിയമങ്ങൾ ഈ രണ്ട് നിയമങ്ങളും കിർചോഫിന്റെ കറണ്ട് നിയമവും Kirchhoff's current law കിർചോഫിന്റെ വോൾട്ടേജ് നിയമവുമാണ് Kirchhoff's voltage law കിർചോഫിന്റെ കറണ്ട് നിയമമായ Kirchhoff's current law ആദ്യത്തേത് ചാർജ് സംരക്ഷണ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് ഒരു പ്രത്യേക സിസ്റ്റത്തിനുള്ളിലെ ചാർജുകളുടെ ബീജഗണിത തുക മാറ്റാൻ കഴിയില്ല ഈ കിർചോഫിന്റെ കറണ്ട് നിയമം ഒരു പ്രത്യേക നോഡിലോ അടച്ച പരിധിയിലോ പ്രവേശിക്കുന്ന വൈദ്യുതധാരകളുടെ ബീജഗണിത തുക എല്ലായ്പ്പോഴും പൂജ്യം ആയിരിക്കുമെന്ന് പറയുന്നു ഗണിതശാസ്ത്രപരമായി നിങ്ങൾ ഇതിനെ എങ്ങനെ പ്രതിനിധീകരിക്കും in ന്റെ സംഗ്രഹം പോലെ നിങ്ങൾ ഇത് പ്രതിനിധീകരിക്കും അത് nth ഘടകത്തിലേക്കോ അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ nth ശാഖയിലേക്കോ ഒഴുകുന്ന വൈദ്യുതി പ്രവാഹത്തിനു തുല്യമാണ് അതിനാൽ in nth ശാഖയിലേക്ക് ഒഴുകുന്ന വൈദ്യുതി പ്രവാഹം ആണ് അതിനാൽ എല്ലാ ശാഖകളിലും ഒഴുകുന്ന എല്ലാ വൈദ്യുതധാരകളുടെയും സംഗ്രഹം പൂജ്യത്തിനും n ഒന്ന് മുതൽ N നും തുല്യമാണെന്ന് കെസിഎൽ പറയുന്നു എന്താണ് N വിശകലനം ചെയ്യുന്ന സർക്ക്യൂട്ടിന്റെ പ്രത്യേക നോഡിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന മൊത്തം ശാഖകളുടെ എണ്ണം ആണ് എൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക അടച്ച അതിർത്തിയിൽ നിന്ന് വരുന്നതോ പോകുന്നതോ ആയ മൊത്തം ശാഖകളുടെ എണ്ണം ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഈ നിയമത്തിൽ ടെർമിനലുകളിൽ പ്രവേശിക്കുന്ന കറണ്ട് പോസിറ്റീവ് ആയി കണക്കാക്കുകയും നോഡിൽ നിന്ന് പുറപ്പെടുന്ന കറണ്ട് നെഗറ്റീവ് ആയി കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക ചിത്രം കാണുകയും വൈദ്യുത പ്രവാഹങ്ങൾ വരുന്നതും പുറത്തു പോകുന്നതുമായ നോഡിൽ കിർചോഫ് കറണ്ട് നിയമം പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കറണ്ട് i1 നോഡിനുള്ളിലേക്ക് പോകുന്നു അതിനാൽ ഇത് പോസിറ്റീവ് ആണ് കറണ്ട് i2 പുറത്തുവരുന്നു അതിനാൽ ഇത് നെഗറ്റീവ് അതുപോലെ i3 പോസിറ്റീവ് ആണ് i4 i5 എന്നിവ നെഗറ്റീവ് ആണ് കൂടാതെ എല്ലാ വൈദ്യുതധാരകളുടെയും ആകെത്തുക പൂജ്യത്തിനു തുല്യമായിരിക്കും ഇത് കെസിഎല്ലിന്റെ പ്രത്യേക സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പകരമായി i1 പ്ലസ് plus " i3 സമം i2 പ്ലസ് i4 പ്ലസ് i5 ന് തുല്യമാണെന്ന് നിങ്ങൾക്ക് എഴുതാം അതിനാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാൻ കഴിയുന്നത് നോഡിലേക്ക് പ്രവേശിക്കുന്ന വൈദ്യുതധാരകളുടെ ആകെത്തുക നോഡിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുതധാരകളുടെ ആകെത്തുകയ്ക്ക് തുല്യമാണ് ഇനി നമുക്ക് കിർചോഫിന്റെ രണ്ടാമത്തെ നിയമത്തെക്കുറിച്ച് സംസാരിക്കാം ഈ രണ്ടാമത്തെ നിയമം ഊർജ്ജ സംരക്ഷണ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു പ്രത്യേക അടച്ച ലൂപ്പിന് ചുറ്റുമുള്ള എല്ലാ വോൾട്ടേജുകളുടെയും ബീജഗണിത തുക പൂജ്യം ആയിരിക്കുമെന്ന് കിർചോഫിന്റെ വോൾട്ടേജ് നിയമം പറയുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ Vm ഒരു ലൂപ്പിൽ കണക്റ്റുചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഘടകത്തിന് കുറുകെ ഉള്ള വോൾട്ടേജാണ് കൂടാതെ ഒരു പ്രത്യേക ലൂപ്പിലെ എല്ലാ ഘടകൾക്കും കുറുകെ ഉള്ള എല്ലാ വോൾട്ടേജുകളും സംഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജിന്റെ സംഗ്രഹം എല്ലായ്പ്പോഴും പൂജ്യവും m 1 മുതൽ M വരെ ആയിരിക്കും ഇവിടെ M ലൂപ്പിലെ വോൾട്ടേജുകളുടെ എണ്ണവും Vm mth വോൾട്ടേജായി കണക്കാക്കിയതും ഇപ്പോൾ ഒരു പ്രത്യേക സർക്യൂട്ടിലെ കിർചോഫ് വോൾട്ടേജ് നിയമം നിങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യും ഒരു പ്രത്യേക ലൂപ്പിൽ എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സർക്യൂട്ട് നമുക്ക് നോക്കാം അതിനാൽ ഈ ലൂപ്പ് അടച്ച ലൂപ്പാണ് ഈ ലൂപ്പിനായി നിങ്ങൾ കിർചോഫ് വോൾട്ടേജ് നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതുക നമുക്ക് v1 ൽ നിന്ന് ആരംഭിക്കാം v1 ൽ നിന്ന് ആരംഭിക്കുന്നു എന്നാൽ നമ്മൾ വോൾട്ടേജ് ഉറവിടത്തിന്റെ നെഗറ്റീവ് ടെർമിനലിനുള്ളിലേക്ക് പോയി വോൾട്ടേജ് ഉറവിടത്തിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തുവരുന്നു നെഗറ്റീവ് മുതൽ പോസിറ്റീവ് ടെർമിനൽ വരെ വോൾട്ടേജ് ഉയരുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ നിങ്ങൾ അതിനെ v1 ന്റെ മൈനസ് പോലെ പ്രതിനിധീകരിക്കുന്നു എന്നിട്ട് റെസിസ്റ്റൻസിനായി v2 പോസിറ്റീവ് ആണ് കാരണം നമ്മൾ പോസിറ്റീവ് വശത്തേക്ക് പ്രവേശിക്കുകയും നെഗറ്റീവിൽ നിന്ന് പുറത്തുവരുകയും ചെയ്യുന്നു ഇവിടെ ഇത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അതിനാൽ വോൾട്ടേജ് ഡ്രോപ്പിനായി നിങ്ങൾ പോസിറ്റീവ് എന്നും വോൾട്ടേജ് ഉയർച്ച നെഗറ്റീവ് എന്നും എഴുതുന്നു വോൾട്ടേജ് v3 നമ്മൾ വീണ്ടും പോസിറ്റീവ് ആയി എഴുതുന്നു കാരണം റെസിസ്റ്ററിനു കുറുകെ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് കാണും പിന്നീട് ഈ വോൾട്ടേജ് സ്രോതസ്സിലൂടെ കടന്നുപോകുമ്പോൾ വോൾട്ടേജ് വീണ്ടും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഉയരുന്നു അതിനാൽ നിങ്ങൾ വോൾട്ടേജിനെ v4 ഇന്റെനെഗറ്റീവ് ആയി എടുക്കുന്നു എന്നിട്ട് വീണ്ടും റെസിസ്റ്റീവ് ഘടകത്തിലൂടെ പോകുമ്പോൾ v5 ലൂടെ ഇത് വോൾട്ടേജ് ഡ്രോപ്പ് ആയതിനാൽ പോസിറ്റീവ് v5 എന്ന് പറയും ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യത്തിലെ ഘടകങ്ങൾ പുനർക്രമീകരിക്കുകയാണെങ്കിൽ v1 v4 എന്നത് v2 v3 v5 അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നിഗമനം ചെയ്യാനാകും ഒരു പ്രത്യേക ലൂപ്പിലെ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ആകെത്തുക വോൾട്ടേജ് ഉയരുന്ന തുകയ്ക്ക് തുല്യമാണ് ഇനി നമുക്ക് സീരീസ് റെസിസ്റ്ററുകളെക്കുറിച്ചും വോൾട്ടേജ് വിഭജിക്കൽ ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കാം ചുവടെയുള്ള സർക്യൂട്ട് നമുക്ക് നോക്കാം അവിടെ രണ്ട് റെസിസ്റ്ററുകൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരേ വൈദ്യുതധാര രണ്ട് റെസിസ്റ്ററുകളിലൂടെയും ഒഴുകുന്നു കാരണം അവ ശ്രേണിയിൽ കണക്റ്റുചെയ്തിരിക്കുകയും അത് ലൂപ്പ് പൂർത്തിയാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഏത് നിയമമാണ് പ്രയോഗിക്കാൻ കഴിയുക നിങ്ങൾക്ക് കിർചോഫ് വോൾട്ടേജ് നിയമം പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ കറന്റ് സമാനമാണ് അതിനാൽ റെസിസ്റ്റർ R1 ന് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് എഴുതാം അതുപോലെ തന്നെ റെസിസ്റ്റർ 2 നെതിരെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും അതിനാൽ കിർചോഫ് വോൾട്ടേജ് നിയമത്തിൽ നിന്നുള്ള മൊത്തം വോൾട്ടേജ് നിങ്ങൾക്ക് എന്ന് എഴുതാം കറന്റ് പൊതുവെ ഉള്ളത് ആയതിനാൽ നിങ്ങൾക്ക് കറന്റ് പുറത്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഈ സമവാക്യം ഈ സമവാക്യത്തിന്റെ ഈ പ്രത്യേക വിഭാഗത്തെ ഈ ചിത്രത്തിന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കും ഇവിടെ നമുക്ക് ഒരു v വോൾട്ടേജ് ഉറവിടവും R1 R2 എന്നീ രണ്ട് റെസിസ്റ്ററുകളുടെയും തുല്യമായ റെസിസ്റ്ററും ഉണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യം സാമാന്യവൽക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം റെസിസ്റ്ററുകൾക്കായി ഇത് വിപുലീകരിക്കാൻ കഴിയും അതിനാൽ ശ്രേണിയിൽ കണക്റ്റുചെയ്തിരിക്കുന്ന എത്രയെത്ര റെസിസ്റ്ററുകൾക്കും തുല്യമായ പ്രതിരോധം വ്യക്തിഗത പ്രതിരോധത്തിന്റെ സംഗ്രഹമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് R1 R2 ശ്രേണിയിൽ Rn വരെ ഉള്ള പ്രതിരോധം ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തുല്യമായ പ്രതിരോധം എന്തായിരിക്കും ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രതിരോധങ്ങളുടെയും സംഗ്രഹമായിരിക്കും തുല്യമായ പ്രതിരോധം

ഇപ്പോൾ വോൾട്ടേജ് റെസിസ്റ്ററുകൾക്കിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് അവയുടെ പ്രതിരോധത്തിന് നേരിട്ട് ആനുപാതികമാണ് ഒരു റെസിസ്റ്റർ ഉണ്ടെന്നും ആ റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾട്ടേജ് ആണെന്നും കരുതുക അപ്പോൾ ഇപ്പോൾ റെസിസ്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം അവിടെ നിലവിലെ ഡിവിഷൻ പിന്തുടരുമെന്ന് നമ്മുക്ക് പറയാം അതിനാൽ ചിത്രത്തിൽ നമ്മുക്ക് കാണാൻ കഴിയും സമാന്തരമായി ഉള്ള R1 R2 എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വോൾട്ടേജ് അതിനാൽ R1 വഴി ഒഴുകുന്ന വൈദ്യുതധാര i1 ഉം R2 വഴി ഒഴുകുന്ന വൈദ്യുതധാര i2 ഉം ആയിരിക്കും ഇവ രണ്ടും സമാന്തരമായതിനാൽ നിങ്ങൾക്ക് എന്ത് പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് കിർചോഫിന്റെ കറണ്ട് നിയമം പ്രയോഗിക്കാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു തമ്പ് നിയമമായി എടുക്കാവുന്ന ഒരു കാര്യം സീരീസിൽ കണക്റ്റുചെയ്തിരിക്കുന്ന ഘടകങ്ങൾ കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഉപയോഗിക്കാം കൂടാതെ സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടകങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കിർചോഫിന്റെ കറണ്ട് നിയമം ഉപയോഗിക്കാം അതിനാൽ ഇവ 2 പ്രധാന നിയമങ്ങളാണ് കൂടാതെ സർക്യൂട്ട് അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അവ പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ട് നമുക്ക് നോക്കാം അവിടെ വൈദ്യുതധാരയെ i1 i2 എന്നിങ്ങനെ വിഭജിക്കുന്നു i1 R1 ലൂടെ ഒഴുകുന്നു i2 R2 വഴി ഒഴുകുന്നു R1 R2 എന്നിവക്കു കുറുകെ ഉള്ള വോൾട്ടേജ് തുല്യമായതിനാൽ i1 ന്റെ മൂല്യം ഓം നിയമം ഉപയോഗിച്ച് അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇപ്പോൾ സമാനമായി i2 നും നിങ്ങൾക്ക് i2 എഴുതാം അല്ലാതെ മറ്റൊന്നുമല്ല ഒടുവിൽ നമ്മുക്ക് ഒരു തുല്യമായ ചിത്രം ഉപയോഗിച്ച് ഇതിനെ പ്രതിനിധീകരിക്കാം അതിൽ വോൾട്ടേജ് റെസിസ്റ്റൻസ് Req ഉം ആയി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് സാമാന്യവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതുക സമാന്തരമായി n റെസിസ്റ്റൻസുകളുണ്ടെങ്കിൽ 1Req ന് തുല്യമായത്1R11R2 1Rn വരെ എഴുതാം എന്ന് കരുതുക അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായി i ന്റെ 1 മുതൽ N വരെ 1 Ri ക്കു തുല്യമാണ് Ri i എന്നാൽ 1 മുതൽ N വരെയാണ് N എന്നാൽ സമാന്തരമായി കണക്റ്റുചെയ്തിരിക്കുന്ന റെസിസ്റ്ററുകളുടെ എണ്ണമാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെ സംഗ്രഹിക്കാം സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിരവധി റെസിസ്റ്ററുകളുടെയും തുല്യമായ റെസിസ്റ്റൻസ് ഓരോരോ റെസിസ്റ്ററുകളുടെ റേസിപ്രോക്കലിന് തുല്യമാണെന്ന് പറയുന്നു അതായത് ഓരോരോ റെസിസ്റ്ററുകളുടേം റേസിപ്രോക്കൽ എന്നാൽ 1Ri ആണ് അതിനുശേഷം നിങ്ങൾ സംഗ്രഹിക്കും നിങ്ങൾക്ക് എന്ത് തന്നെ ലഭിച്ചാലും അതിന്റെ റേസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് ഒടുവിൽ തുല്യമായ പ്രതിരോധത്തിന്റെ മൂല്യം ലഭിക്കും Req എന്നാൽ ഓരോരോ റെസിസ്റ്ററുകളുടെ സംഗ്രഹത്തിന്റെ റേസിപ്രോക്കൽ അല്ലാതെ മറ്റൊന്നുമല്ല മുമ്പത്തെ സ്ലൈഡിൽ കണ്ട കറണ്ട് വിഭജിക്കൽനെക്കുറിച്ചും സർക്യൂട്ടിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഓരോ റെസിസ്റ്ററുകളിലൂടെ ഒഴുകുന്ന കറന്റ് നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കും ഈ മൂല്യങ്ങൾ എങ്ങനെ നിർണ്ണയിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനാൽ ഈ പ്രത്യേക ചിത്രം കൊണ്ട് i1 i2 എന്നിവയുടെ മൂല്യം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം i എന്നാൽ i1 പ്ലസ് i2 ആണ് വോൾട്ടേജ് v രണ്ട് റെസിസ്റ്ററുകളിലും പ്രയോഗിക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽ അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് i2 ന്റെ മൂല്യം എന്ന് ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ അതുകൊണ്ടു ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം സർക്യൂട്ടിൽ i2 v2 എന്നിവയുടെ മൂല്യം കണ്ടെത്താനും 3 ഓം റെസിസ്റ്ററിൽ പ്രവഹിക്കുന്ന വൈദ്യുതി കണ്ടെത്താനും നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ഇവ രണ്ടും സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ നോഡിൽ കിർചോഫിന്റെ കറണ്ട് നിയമം ഉപയോഗിക്കാനും തുല്യമായ റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാനും കഴിയും അതിനാൽ നിങ്ങൾക്ക് തുല്യ റെസിസ്റ്റൻസ് ലഭിക്കും അതിനാൽ Req 6 ഓം ആയിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് കറന്റിന്റെ മൂല്യം കണ്ടെത്താനാകും A ഇപ്പോൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ഓം റെസിസ്റ്ററിന്റെ കുറുകെ ഉള്ള വോൾട്ടേജ് അടിസ്ഥാനപരമായി ഈ പ്രത്യേക സെഗ്മെന്റിന്റെ തുല്യമായ പ്രതിരോധം ആയിരിക്കും ഈ വോൾട്ടേജ് v2 രണ്ട് റെസിസ്റ്ററുകൾക്കും പൊതുവായി ഉള്ളതായതിനാൽ നിങ്ങൾക്ക് ഈ സംയുതത്തിനായുള്ള v2 ന്റെ മൂല്യം കണ്ടെത്താനാകും ഒടുവിൽ കറണ്ട് വിഭജനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്റെ മൂല്യം കണ്ടെത്താനാകും അതിനാൽ 6 ഓം 3 ഓം സമാന്തര റെസിസ്റ്ററുകളുടെ തുല്യ സംയോജനത്തിന് നിങ്ങൾക്ക് മൂല്യം 4 വോൾട്ട് ആയി ലഭിക്കും അത് v2 ആണ് തുടർന്ന് വിഭജന നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് കറണ്ട് ന്റെ മൂല്യം കണ്ടെത്താനാകും W ഇനി നമുക്ക് സീരീസ് കപ്പാസിറ്ററുകളെക്കുറിച്ച് സംസാരിക്കാം സീരീസിൽ n കപ്പാസിറ്ററുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ചുവടെയുള്ള സർക്യൂട്ട് പരിഗണിക്കുക ഇവ പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാം അതിനാൽ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും കാരണം ഈ വോൾട്ടേജുകൾ ഓരോ കപ്പാസിറ്റർനും കുറുകെ ഉള്ള വോൾട്ടേജാണ് ഇപ്പോൾ എന്താണ് വോൾട്ടേജ് v Kth കപ്പാസിറ്ററിനായുള്ള വോൾട്ടേജ് v എന്നാൽ അതിനാൽ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണിത് അവിടെ നമ്മൾ വിവിധ റെസിസ്റ്റർ ഇൻഡക്റ്റർ കപ്പാസിറ്റർ ഘടകങ്ങൾ വിശകലനം ചെയ്തു ഇപ്പോൾ ഇത് kth കപ്പാസിറ്ററിനുള്ളതാണ് ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കപ്പാസിറ്റ്ററുകളുടേം വോൾട്ടേജുകൾ ചേർത്താൽ നിങ്ങൾക്ക് മൊത്തം വോൾട്ടേജ് v യുടെ മൂല്യം ലഭിക്കും അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക സമവാക്യം പുനർക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കപ്പാസിറ്റൻസുകളും ഇന്റഗ്രലിന് പുറത്ത് ഒരുമിപ്പിക്കാൻ കഴിയും കാരണം ഇവ സ്ഥിരമായ അളവുകളും തുടർന്ന് നേടാനുള്ള പ്രാരംഭ വോൾട്ടേജുകളും ആണ് അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഇപ്പോൾ നിങ്ങൾ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ എന്നത് ഓരോ കപ്പാസിറ്റൻസുകളുടെ റേസിപ്രോക്കലിന്റെ സംഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിഗമനം ചെയ്യാൻ സാധിക്കും അതിനാൽ നിങ്ങൾക്ക് ലളിതമായി എഴുതാം അത് ശ്രേണിയിൽ കണക്റ്റുചെയ്തിരിക്കുന്ന കപ്പാസിറ്ററുകളുടെ എണ്ണമാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് n സീരീസ് കണക്റ്റുചെയ്ത കപ്പാസിറ്ററുകളുടെ തുല്യ കപ്പാസിറ്റൻസ് ഓരോ കപ്പാസിറ്റൻസുകളുടെ റെസിപ്രോക്കലിന്റെ ആകെത്തുകയുടെ റെസിപ്രോക്കൽ ആണ് അതായത് Ceq ഓരോ കപ്പാസിറ്റൻസുകളുടെ റെസിപ്രോക്കലിന്റെ ആകെത്തുകയുടെ റെസിപ്രോക്കൽ ആണ് ഇപ്പോൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ട മുമ്പത്തെ ചർച്ച നിങ്ങൾ ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ സമാന്തരമായി റെസിസ്റ്റൻസ് കാണുന്ന അതേ രീതിയിൽ സീരീസിലെ കപ്പാസിറ്ററുകൾ കൂടിച്ചേരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കപ്പാസിറ്ററുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇവിടെ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് കിർചോഫ് കറന്റ് നിയമം പ്രയോഗിക്കാൻ കഴിയും മാത്രമല്ല തുല്യ കപ്പാസിറ്റൻസിന്റെ മൂല്യം കണ്ടെത്താനും തിരിച്ചറിയാൻ കഴിയും അതിനാൽ നിങ്ങൾ കിർചോഫ് കറന്റ് നിയമം പ്രയോഗിക്കുമ്പോൾ ith കപ്പാസിറ്ററിൽ ഒഴുകുന്ന വൈദ്യുതധാര ഇപ്രകാരം എഴുതാമെന്ന് നിങ്ങൾക്കറിയാം മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടത് ഇതാണ് അതിനാൽ നിങ്ങൾ എല്ലാ വൈദ്യുതധാരകളും സംഗ്രഹിക്കുകയാണെങ്കിൽ അത് സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന കറന്റിന് തുല്യമായിരിക്കും അതിനാൽ ആകെ നിലവിലെ i1 പ്ലസ് i2 തുടങ്ങി in അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ സംഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ സംഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എഴുതാം സർക്യൂട്ടിൽ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യക്തിഗത കപ്പാസിറ്റൻസുകളുടെ സംഗ്രഹം മാത്രമാണ് Ceq എന്ന് നിങ്ങൾ ഒടുവിൽ പറയും അതിനാൽ സമാന്തരമായി കണക്റ്റുചെയ്ത n കപ്പാസിറ്ററിന്റെ തുല്യ കപ്പാസിറ്റൻസ് ഓരോ കപ്പാസിറ്റൻസുകളുടെ ആകെത്തുകയല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ റെസിസ്റ്ററുകളുമായും കപ്പാസിറ്ററുകളുമായും ബന്ധപ്പെട്ട സർക്യൂട്ടുകളുടെ പരസ്പരബന്ധം നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കപ്പാസിറ്ററുകൾ ശ്രേണിയിലെ റെസിസ്റ്ററുകളുടെ അതേ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഇൻഡക്റ്ററുകളെക്കുറിച്ച് സംസാരിക്കാം ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന Ln ഇൻഡക്റ്ററുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് എന്ത് പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് കിർചോഫിന്റെ വോൾട്ടേജ് നിയമം പ്രയോഗിക്കാൻ കഴിയും കാരണം ഇത് ലൂപ്പിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു v എന്നത് ഇൻഡക്റ്ററുകളിലുടനീളം ഉള്ള ഓരോ വോൾട്ടേജുകളുടെ സംഗ്രഹം മാത്രമാണ് അതിനാൽ എല്ലാ ഇൻഡക്റ്ററുകളിലും i ഒരുപോലെയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം അതിനാൽ എല്ലാ ഇൻഡക്റ്ററുകളും സംഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനാകും ആ പ്രത്യേക സർക്യൂട്ടിലെ ശ്രേണിയിൽ കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തിഗത ഇൻഡക്റ്റൻസുകളുടെയും സംഗ്രഹം മാത്രമാണ് Leq എന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാം അതിനാൽ സീരീസ് കണക്റ്റുചെയ്ത n ഇൻഡക്ടറുകളുടെ തുല്യമായ ഇൻഡക്റ്റൻസ് വ്യക്തിഗത ഇൻഡക്റ്റൻസുകളുടെ ആകെത്തുകയാണ്

അതിനാൽ നിങ്ങൾ സീരീസ് സംയോജിത റെസിസ്റ്ററുകളുമായി പരസ്പരബന്ധിതമാണെങ്കിൽ സീരീസിലെ ഇൻഡക്റ്ററുകൾക്ക് സംയോജിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്ററുകളുടെ അതേ രീതിയിൽ തുല്യമായ ഇൻഡക്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾ പറയും ഇപ്പോൾ സമാന്തരമായി ബന്ധിപ്പിച്ച ഇൻഡക്ടറുകളെക്കുറിച്ച് സംസാരിക്കാം ഈ ഇൻഡക്ടറുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി ഈ ചിത്രത്തിൽ നിങ്ങൾ കാണും ഈ ഇൻഡക്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് കിർചോഫിന്റെ കറന്റ് നിയമം പ്രയോഗിക്കാമെന്നാണ് നിങ്ങൾ കിർചോഫിന്റെ കറന്റ് നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് i ലഭിക്കും അതാണ് വോൾട്ടേജ് ഉറവിടത്തിൽ നിന്ന് വരുന്ന വൈദ്യുത പ്രവാഹം വ്യക്തിഗത ഇൻഡക്ടറുകളിൽ ഒഴുകുന്ന വ്യക്തിഗത വൈദ്യുത പ്രവാഹങ്ങളുടെ സംഗ്രഹം അല്ലാതെ മറ്റൊന്നുമല്ല ഒടുവിൽ തുല്യമായ ഇൻഡക്റ്റൻസിന്റെ മൂല്യം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ നിങ്ങൾ എന്തുചെയ്യണം ഓരോ ഇൻഡക്ടറിലും ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യം നിങ്ങൾ കണ്ടെത്തണം അതിനാൽ നിങ്ങൾ എഴുതുന്നു i ഇന്റഗ്രൽ രൂപത്തിൽ എഴുതാൻ കഴിയും കൂടാതെ മൊത്തം കറന്റിന്റെ മൂല്യം കണ്ടെത്തുന്നതിന് ഇത് ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ എന്തുചെയ്യണം ഓരോ ഇൻഡക്ടറിലും ഒഴുകുന്ന വൈദ്യുത പ്രവാഹങ്ങൾ നിങ്ങൾ സംഗ്രഹിക്കണം ഓരോ ഇൻഡക്ടറിലും വോൾട്ടേജ് തുല്യമാണ് ആദ്യം ഇൻഡക്റ്ററിനായി നിങ്ങൾക് എഴുതാം ഇത് നമ്മൾ പറയുന്ന കാര്യമാണ് തുടക്കത്തിൽ t0 സമയത്ത് ഇൻഡക്റ്ററിൽ കുറച്ച് കറന്റ് ഉണ്ടെന്ന് അനുമാനിക്കുന്നു അതിനാൽ ആ ഇൻഡക്റ്റർ 1ന്റെ പ്രാരംഭ വ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്നു അതുപോലെ ഇൻഡക്റ്റർ 2 നായി ഞങ്ങൾ ഉം ഇൻഡക്ടറിൽ ഒഴുകുന്ന പ്രാരംഭ കറന്റും എഴുതാം കൂടാതെ എല്ലാ ഘടകങ്ങളും സംഗ്രഹിക്കുമ്പോൾ നമുക്ക് എഴുതാം

ഇപ്പോൾ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് എഴുതാം അതിനാൽ സമാന്തരമായി കണക്റ്റുചെയ്ത N ഇൻഡക്റ്ററുകളുടെ തുല്യമായ Leq ഇൻഡക്റ്റൻസ് വ്യക്തിഗത ഇൻഡക്റ്റൻസുകളുടെ റെസിപ്രോക്കൽന്റെ ആകെത്തുകയാണ് അതായത് ഓരോ ഇൻഡക്റ്റൻസുകളുടെ റെസിപ്രോക്കൽന്റെ ആകെത്തുകയുടെ റെസിപ്രോക്കലിന് തുല്യമായി എഴുതാം അതിനാൽ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇൻഡക്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്ററുകളുടെ അതേ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഇൻഡക്ടറുകൾ എന്നിവയുടെ സമാന്തരവും സീരീസ് സംയോജനവും നമ്മൾ കണ്ടു അടുത്ത ക്ലാസ്സിൽ ഈ ഘടകങ്ങൾ തമ്മിലുള്ള ഫേസർ ബന്ധം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും അതാണ് റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്റ്റർ എന്നിവയ്ക്കുള്ള വോൾട്ടേജും കറന്റ് ഉം തമ്മിൽ ഉള്ള ഫേസർ ബന്ധവും തുടർന്ന് സിനുസോയ്ഡൽ വ്യത്യാസപ്പെടുന്ന വോൾട്ടേജിനും കറന്റിനുമുള്ള ഇംപെഡൻസിന്റെ ബന്ധം നമ്മൾ സ്ഥിരപ്പെടുത്തും ഇന്ന് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസിൽ ഈ അളവുകളുടെ ഫേസർ ബന്ധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും നന്ദി